സെൽ കൾച്ചർ ലെക്ചർ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മയോട്യൂബുകൾ സൃഷ്ടിക്കുന്ന ശക്തി മൈക്രോ കാന്റിലിവർ സിസ്റ്റം ഉപയോഗിച്ച് എങ്ങനെ അളക്കും എന്നതിനെക്കുറിച്ചാണ് അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കാന്റിലിവർ വളയുകയും കാന്റിലിവറിന്റെ കോണിലെ മാറ്റം അളക്കാൻ സാധിക്കുകയും ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയും എന്ന് എന്നാൽ അത് സാധ്യമാകണമെങ്കിൽ ഇപ്പോൾ ഉപയോഗത്തിലുള്ള ചില സജ്ജീകരണങ്ങൾ ആവശ്യം ആയിട്ടുണ്ട് വ്യക്തിപരമായി എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞ അത്തരമൊരു സജ്ജീകരണത്തെ കുറിച്ച് ഇവിടെ പറയാം അപ്പോൾ ഇതാണ് ഒരു കാന്റിലിവർ നിങ്ങൾ എന്താണ് ചെയ്യുക നിങ്ങൾ ഇവിടെ ഒരു ലേസർ സ്രോതസ്സ് വളരെ പോയിന്റുചെയ്ത ഒരു ലേസർ സ്രോതസ്സ് സ്ഥാപിക്കുന്നു ഇത് എട്ടാമത്തെ ആഴ്ചയിലെ മൂന്നാമത്തെ ലെക്ചർ ആണ് W8 L3 ഈ കാന്റിലിവറിൽ നിങ്ങൾ ഒരു ലേസർ പ്രകാശിപ്പിക്കുന്നു ഈ ലേസർ ഇത്തരത്തിൽ തിരിച്ച് പ്രതിഫലിക്കുന്നു അപ്പോൾ ഇത്തരത്തിലാണ് ലേസർ സിലിക്കൺ കാൻന്റിലിവറിൽ പതിക്കുന്നതും അവിടെനിന്ന് തിരിച്ചുവരുന്നതും ഇത്തരത്തിൽ അത് തിരിച്ച് വരുമ്പോൾ ഒരു പൊസിഷൻ സെൻസിറ്റീവ് ഉപകരണം ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിനെ ട്രാക്ക് ചെയ്യാവുന്നതാണ് ഈ ലേസർ ഏത് കോണിൽ തിരികെയെത്തുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിവുള്ള ഒരു തരം ഉപകരണം ഉദാഹരണത്തിന് നിങ്ങൾ ഇത് അയക്കുമ്പോൾ ഉള്ള കോൺ തീറ്റ ആണെന്നും അത് തിരിച്ചു വരുമ്പോൾ ഉള്ള കോൺ തീറ്റ പ്രൈം ആണെന്നും കരുതുക അതിനാൽ തീറ്റ തീറ്റപ്രൈംമിന് തുല്യമാണെങ്കിൽ അതിനർത്ഥം കാന്റിലിവർ ചലിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രത്യേക നിമിഷത്തിൽ അത് ബേസ് ലൈനിൽ ആയിരുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബേസ്ലൈൻ ഇപ്പോൾ നിങ്ങളുടെ പക്കൽ പൊസിഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉപകരണം ഉണ്ട് അത് എത്രത്തോളം വളവ് ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതാണ് നിങ്ങളുടെ ലേസർ സ്രോതസ്സ് ഇങ്ങനെയുള്ള സജ്ജീകരണത്തിൽ നിങ്ങൾ കോശങ്ങൾ വളർത്തുന്നു ഈ കോശങ്ങൾ ഇത്തരത്തിലുള്ള ഘടനകൾ അതായത് മയോ ട്യൂബുകൾ ആയി മാറും എന്ന ധാരണയിൽ ഇനി ഈ മയോ ട്യൂബുകൾ സങ്കോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചലനം സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ അവ ബേസ് ലൈനിൽ നിന്ന് വ്യതിചലിക്കുകയും വീണ്ടും ബേസ് ലൈനിലേക്ക് തിരിച്ചുവരികയും വീണ്ടും ബേസ് ലൈനിൽ നിന്ന് വ്യതിചലിക്കുകയും ബേസ് ലൈനിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെയുള്ള കാന്റിലിവർ ചെറുതായി വളയുന്നു വളരെ നേരിയ തോതിലുള്ള വളയൽ മാത്രമാണ് കാന്റിലിവർ ഘടനയിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇതാണ് കാന്റിലിവർ ലൈൻ ഇതിനെ വളയ്ക്കുന്ന ശക്തിയെ വരയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വളയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക ഇത് വളയുന്ന തിനാൽ ലേസർ ലൈറ്റ് ഇതുപോലെ പോകും കൂടാതെ ഇത് വ്യത്യസ്തമായ തീറ്റ ഡബിൾ പ്രൈം കോണിൽ തിരിച്ചു വരികയും ചെയ്യും ഇത് പോകുന്ന കോൺ തീറ്റ ആണെങ്കിൽ ചലനത്തിന് ശേഷമുണ്ടാകുന്ന കോൺ ആയ തീറ്റ പ്രൈം അതിനോട് തുല്യം ആയിരിക്കില്ല അതു നിങ്ങൾക്ക് ഇതിൻറെ മൂല്യം പറഞ്ഞുതരും ആ ലഭിക്കുന്ന തീറ്റ പ്രൈം മൂല്യമാണ് നിങ്ങൾ സ്റ്റോണിസ് സമവാക്യത്തിൽ Stoney's equation ഉപയോഗിക്കേണ്ടത് അതിൽ നിന്നും മയോ ട്യൂബ് സൃഷ്ടിച്ച ശക്തി നിങ്ങൾക്ക് ലഭിക്കും ഇനി നിങ്ങൾ എന്തെങ്കിലും മരുന്നോ അല്ലെങ്കിൽ പേശികളെ ശാന്തമാക്കാനുള്ള തന്മാത്രകളോ ചേർക്കുകയാണ് എന്നിരിക്കട്ടെ ഈ പ്രത്യേകമായ മരുന്ന് നാഡീ കോശങ്ങളിലോ പേശികളിലോ പ്രവർത്തിക്കുമോ എന്ന് നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ എക്സ് വൈ ഇസെഡ് അങ്ങനെയെന്തെങ്കിലും ചേർക്കുകയാണ് അങ്ങിനെ ചേർക്കുന്ന ഉടനെ തന്നെ മയോ ട്യൂബ് സൃഷ്ടിക്കുന്ന ശക്തിയിൽ വ്യത്യാസം കാണാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഇൻവിട്രോ സിസ്റ്റം ഉപയോഗിച്ച് ഈ നിർദിഷ്ട മരുന്ന് എങ്ങനെ പ്രവർത്തിക്കും എന്ന് പ്രവചിക്കാൻ ആകും അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാൻ അവസരം ഉണ്ടായ ഒരു സിസ്റ്റം ഒരു മൈക്രോ മെഷീൻ ഉപകരണം വെച്ച് പേശികളുടെ സങ്കോചം വഴി ഉണ്ടാകുന്ന ശക്തി അളക്കുന്ന ഒരു സാങ്കേതിക വിദ്യ ഞങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ഇലക്ട്രിക്കൽ ഘടകം കൂടി ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അപ്പോൾ നമുക്ക് ആ ഇലക്ട്രിക്കൽ ഘടകത്തെ കുറിച്ച് സംസാരിക്കാം നമ്മൾ മയോട്യൂബിനെക്കുറിച്ചോ പേശിയെക്കുറിച്ചോ സംസാരിക്കുമ്പോഴെല്ലാം ഓർക്കണം അവയെ നിയന്ത്രിക്കുന്നത് മോട്ടോർ ന്യൂറോണുകളാണ് ഇവിടെ നിങ്ങളുടെ പക്കൽ ഇത്തരത്തിൽ വളരുന്ന ഒരു പേശിയോ മയോ ട്യൂബോ ഉണ്ടെന്ന് ഇരിക്കട്ടെ ഇതാണ് ഈ പേശികളിലെ മോട്ടോർ ന്യൂറോൺ സിനാപ്സ് സിനാപ്സിൽ നിങ്ങൾ നിരീക്ഷിക്കുന്നത് സിനാപ്റ്റിക് വെസിക്കിൾ ആണ് അപ്പോൾ ഇവിടെ സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട് അല്ലെങ്കിൽ ഈ പ്രത്യേക ഭാഗത്തെ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് വിളിക്കുന്നു ന്യൂറോ മസ്കുലർ ജംഗ്ഷന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ആണ് ഈ പേശി എത്രത്തോളം സങ്കോചിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ മിക്കവാറും പേശികളും അസ്ഥി പേശികൾ അല്ല അതായത് ത്വരിതഗതിയിൽ സങ്കോചിക്കുന്ന പേശികൾ അല്ല മോട്ടോർ ന്യൂറോണുകളിൽ നിന്ന് ഇൻപുട്ട് ലഭിക്കുമ്പോൾ പേശികൾ സൃഷ്ടിക്കേണ്ട ശക്തിയെ തീരുമാനിക്കുന്നത് ഈ മേഖലയിൽ സ്രവിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ആണ് അല്പം കൂടി സങ്കീർണതയിലേക്ക് ആണ് നമ്മൾ പോകുന്നത് ഒരു കൾച്ചർ ഡിഷിൽ അല്ലെങ്കിൽ മൈക്രോ കാന്റിലിവറിന് മുകളിൽ രണ്ട് വ്യത്യസ്ത തരം കോശങ്ങളെ വളർത്തണം എന്നിരിക്കട്ടെ ഞാൻ അതിലേക്ക് വരാം ഇപ്പോൾ നമുക്ക് അറിയാം എങ്ങനെ പേശികളുടെ സങ്കോചത്തെ അളക്കാൻ കഴിയുമെന്ന് നമുക്ക് അറിയാത്തത് എന്താണെന്നുവെച്ചാൽ ഇത് സ്വമേധയാ ചുരുങ്ങുന്ന പേശി അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപത്തിൽ സിഗ്നൽ അയച്ച് പേശികളുടെ സങ്കോചം സാധ്യമാക്കുന്ന ന്യൂറോൺ ഇതുമായി എങ്ങനെ സംയോജിപ്പിക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവിടെ ഇലക്ട്രോഡ് ഉപയോഗിച്ച് മോട്ടോർ ന്യൂറോണുകൾ ഉത്തേജിപ്പിക്കാം ഇവിടെ അപ്പോൾ രണ്ട് പ്രശ്നങ്ങൾ ആണ് ഉള്ളത് അത് നമുക്ക് ഇവിടെ എഴുതാം ഒന്നാമത്തേത് പേശികോശങ്ങളും നാഡീകോശങ്ങളും ഒരുമിച്ച് എങ്ങനെ കൾച്ചർ ചെയ്യുമെന്നതാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ പഠിക്കുന്നതിനായി പേശിയും നാഡീകോശങ്ങളും ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ പലരും ചുരുക്കി എൻ എം ജെ എന്നാണ് വിളിക്കാറ് അപ്പോൾ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ പഠിക്കാനായി പേശികളും ന്യൂറോൺ കോശങ്ങളും ഒരുമിച്ച് എങ്ങനെ കൾച്ചർ ചെയ്യും അതാണ് നിങ്ങളുടെ ആദ്യത്തെ പ്രശ്നം രണ്ടാമത്തേത് ഒരു മൈക്രോ കാന്റിലിവർ അസംബ്ലിയിൽ ഇത്തരമൊരു സിസ്റ്റം എങ്ങനെ സംയോജിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിലേക്ക് പോകും മുമ്പ് ഞാൻ ഈ ഭാഗം പിന്തുടരാം പലപ്പോഴും നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചത് എന്നാൽ ഇപ്പോഴും സ്വപ്നമായി തന്നെ നിലനിൽക്കുന്ന ഒന്ന് എന്നാൽ ഭാവിയിൽ അത് പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങളുടെ പക്കൽ ഒരു കാന്റിലൈവർ ഉണ്ട് ശരിയല്ലേ കാൻന്റിലിവറിനെ കുറിച്ച് ഞാൻ ആഴത്തിൽ സംസാരിച്ചതാണ് ക്ഷമിക്കണം ആ ഭാഗത്തെക്കുറിച്ച് ഇനി പറയുന്നില്ല ഞാൻ അതിൻറെ ഉപരിതലം മാത്രമാണ് കാണിക്കുന്നത് ഇതാണ് അതിൻറെ കനം ഞാൻ അതാണ് നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് ഒന്നിലധികം ന്യൂക്ലിയസ് ഉള്ള മയോ ട്യൂബ് അപ്പോൾ ഇവിടെയുണ്ട് അതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ന്യൂറോൺ സംയോജിപ്പിക്കണം അവ അതിൽ സിനാപ്സുകൾ രൂപപ്പെടുത്തും അത് സാധ്യമാക്കാൻ ആയി നിങ്ങൾ ഈ സംവിധാനത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് കാരണം ഈ പേശി ന്യൂറോണുമായി ഇടപഴകണം അല്ലെങ്കിൽ ന്യൂറോൺ പേശിയുമായി സംവദിക്കണം എന്നത് മാത്രമല്ല അതിലും പ്രധാനം അവ ഇവിടെ ന്യൂറോ മസ്കുലർ ജംഗ്ഷനുകൾ ഉണ്ടാക്കണം എന്നതാണ് പ്രവർത്തനക്ഷമമായ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷണൽ എൻ എം ജെ രൂപപ്പെടാതെ മുഴുവൻ പ്രക്രിയയും സാധ്യമാവില്ല ഈ മോട്ടോർ ന്യൂറോണുകൾ ഇലക്ട്രിക്കലി സജീവം ആയിരിക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് കോശങ്ങളെ ഇലക്ട്രോഡ്കളുടെ മുകളിൽ വളർത്തിയെടുക്കാം ശേഷം ആ ഇലക്ട്രോഡ്കളെ ഈ സിസ്റ്റത്തിൽ നിക്ഷേപിക്കാം അവയെ ഉത്തേജിപ്പിക്കുന്ന ഇലക്ട്രോഡുകൾ ആയി ഉപയോഗിക്കാം ന്യൂറോണുകൾ ഉത്തേജിപ്പിക്കുക എന്നതാണ് ഇവിടത്തെ ആശയം ന്യൂറോണുകളിൽ നിന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ സഞ്ചരിച്ച് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ എത്തുകയും അവിടെ എത്തിക്കഴിഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉൽപാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പേശികളുടെ സങ്കോചം സാധ്യമാക്കുകയും അങ്ങിനെ പേശികളിൽ ശക്തി രൂപപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഇത്തരം ഒരു സജ്ജീകരണത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മോട്ടോർ ന്യൂറോണുകളുടെയും മയോ ട്യൂബുകളുടെയും വളർച്ചയെ സാധ്യമാകുന്ന ഒരു പൊതുവായ മീഡിയമാണ് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ ശരീരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ സുഷുമ്ന ഉണ്ട് ഈ വെൻട്രൽ ഹോണിൽ മോട്ടോർ ന്യൂറോൺ കാണാനാകും ഇവിടെ പേശികളും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ ഭാഗത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സ്പൈനൽ ഫ്ളൂയിഡ് ആണ് കാണുന്നത് ഇവിടെയാണ് ഈ ജംഗ്ഷനുകൾ രൂപപ്പെടുന്നത് അപ്പോൾ ഒരു സമയത്ത് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ പൊതുവായ ഒരു മീഡിയം എങ്ങനെ ഉണ്ടാക്കി എടുക്കും എന്നതാണ് രണ്ടാമതായി അത്തരത്തിൽ ഒരു മീഡിയം ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അത് സിറം ഉപയോഗിക്കാത്ത ഒരു ഡിഫൈൻഡ് മീഡിയ ആയിരിക്കണം അങ്ങനെയെങ്കിൽ ഈ കോശങ്ങളെ എങ്ങനെയാണ് നിക്ഷേപിക്കാൻ പോകുന്നത് ഏതു കോശങ്ങളെ ആദ്യം നിക്ഷേപിക്കും ഏതു കോശങ്ങളെ പിന്നീട് നിക്ഷേപിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞിരുന്നതുപോലെ പേശി കോശങ്ങൾ വിഭജിക്കുകയും ഇത്തരത്തിലുള്ള ഒരു മാതൃക പിന്തുടരുകയും ചെയ്യും നേരെമറിച്ച് നാഡീകോശങ്ങൾ അവിടെ ഇരിക്കും തുടർന്ന് അവ ഇത്തരത്തിൽ മസ്കുലാർ ജംഗ്ഷനുകൾ സൃഷ്ടിക്കും അത്തരത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിൽ ഒരു ഘടന എങ്ങനെ സജ്ജമാക്കാം എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ക്ലാസ്സ് ന്യൂറോമസ്കുലർ ജംഗ്ഷന്റെയും ഈ പ്രക്രിയയിലെ വെല്ലുവിളികളുടെയും കഥയാണ്